ഇപ്പോൾ നമ്മൾ അവബോധത്തെ കുറിച്ച് സംസാരിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നത് നമ്മൾ കാണുകയുണ്ടായി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അഥവാ ഓർമിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മറന്നുപോകുന്നത് അഥവാ മറക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ പരിചിന്തനം ചെയ്യുന്നത് എങ്ങനെ മറ്റുള്ളവർ ചില നല്ല വാർത്തകൾ നിങ്ങളുമായി പങ്കു വയ്ക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സന്തോഷം പരിപൂർണ്ണമായ സന്തോഷം ഇവയെല്ലാം നമ്മൾ കാണുകയുണ്ടായി നിങ്ങളുടെ ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് അത്രമേൽ പ്രകടമായിരുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ അത്യഗാധമായ ദുഃഖം അനുഭവിച്ചു ചില സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന അക്കാര്യം സംഭവിക്കുന്നു അപ്പോൾ നിങ്ങൾ ആശ്ചര്യ ചകിതയാകുന്നു നിങ്ങളുടെ ഈ പാഠ്യക്രമത്തിൽ വികാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പറഞ്ഞ ഏതാനും കാര്യങ്ങൾ ആണ് നമ്മൾ കാണാനും സംസാരിക്കാനും പോകുന്നത് ഇവിടെ നമ്മൾ ആദ്യമേ ഇമോഷൻ അഥവാ വികാരം എന്താണ് എന്ന് പഠിക്കും മനശാസ്ത്രജ്ഞന്മാർ മനുഷ്യവികാരങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് സംബന്ധിച്ച് പഠിക്കും വികാരങ്ങളുടെ സ്വാഭാവികവും ഫലപ്രദവും ആയ സമ്പ്രദായം എന്തെന്ന് പഠിക്കും 20 മിനിറ്റിന്റെ ആറ് അധ്യാപനം എന്ന ഒരു പരിമിതി നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് വികാരത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട തത്വങ്ങൾ നമ്മളിവിടെ വിശദീകരിക്കും മാത്രമല്ല വികാരങ്ങളും വികാരങ്ങളെ മനസ്സിലാക്കുന്ന രീതിയും എങ്ങനെ വളർന്ന് വളരെ വളരെ വിശാലമായി എന്ന് മലസ്സിലാക്കുന്നതിനും നമ്മുടെ യഥാർത്ഥ അനുഭവങ്ങളിൽ എങ്ങനെ എന്ത് എന്തുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു ഇത്രയും ആണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിൻറെ സംഗ്രഹം വികാരത്തെ നിർവചക്കുന്നതിന് ഞാനിവിടെ ഐസെൻക്കിന്റെ നിർവചനമാണ് എടുക്കുന്നത് അദ്ദേഹം പറയുന്നു വികാരമെന്നത് ഒരു വസ്തുവിനെയോ ഒരു സാഹചര്യത്തെയോ സംബന്ധിച്ചുള്ള അതിശക്തമായ അഥവാ പ്രചണ്ഡമായ അവബോധം ഉൾക്കൊള്ളുന്ന വളരെ സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷമാണ് അത് ശാരീരിക സ്ഥിതിയിൽ വലുതായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു അതുമൂലം ഒരുതരം ആകർഷണം അല്ലെങ്കിൽ വികർഷണം ഉളവാകുന്നു സമീപനത്തിനോ അല്ലെങ്കിൽ പിന്മാറ്റത്തിനോ കാരണമാകുന്ന ഒരു സ്വഭാവം ഉടലെടുക്കുന്നു ഈയൊരു നിർവചനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വികാരവുമായി ബന്ധപ്പെട്ട വളരെയധികം വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഒരു വസ്തുവിനെക്കുറിച്ച് അവബോധം ഉള്ളവൻ ആകുന്നു നിങ്ങളൊരു സാഹചര്യത്തെ കുറിച്ച് അവബോധം ഉള്ളവൻ ആകുന്നു ഈ വസ്തുവിനെ കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾക്ക് അതിശക്തമായ അവബോധമാണുള്ളത് അത് ഒരുതരം സങ്കീർണമായ അവസ്ഥാവിശേഷത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്താണ് ആ സങ്കീർണമായ അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഐസെൻക്ക് പറയുന്ന ആ സങ്കീർണതയെ ഒന്ന് വിഘടിപ്പിച്ചു ലളിതമാക്കി പറയുകയാണെങ്കിൽ അതിപ്രകാരമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് അതിശക്തമായ അവബോധമാണ് ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ആകർഷണത്തിനോ വികർഷണത്തിനോ കാരണമായേക്കാവുന്ന മൂല്യനിർണയമാണ് പിന്നെ സമീപിക്കാനോ പിന്മാറാനോ സംഗതിയാകുന്ന സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അവബോധം അതിശക്തമായിരിക്കും ശരീരം ചില വ്യതിയാനങ്ങൾക്ക് വിധേയമാകും നിങ്ങൾ ഒരു വിലയിരുത്തൽ നടപടിക്രമത്തിലേക്ക് കടന്നുപോകും നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കും ഇപ്പോൾ ഈ സംഭവിക്കുന്നതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് എന്തുമാത്രം പ്രസക്തമാണ് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ഈ ചിന്തകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരുപക്ഷേ അതിനോട് ആകർഷിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ഒരു തരം വികർഷണം തോന്നാം അതിൽ നിന്നും മാറി നടക്കാൻ ഇടയാകാം ആ വസ്തുവിലേക്ക്സാഹചര്യത്തിലേക്ക് നിങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെ ആകർഷണം എന്നും അതിൽ നിന്നും നിങ്ങൾ മാറി അകന്നു പോകുകയാണെങ്കിൽ അതിനെ വികർഷണം എന്നും പറയാം ഇതിന്റെയെല്ലാം ഫലമായി നിങ്ങളുടെ സ്വഭാവം പ്രകാശിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ പ്രതിഫലനം എന്നു പറയുന്നത് ഒരുപക്ഷേ അതിനോടുള്ള സ്വീകാര്യതയാകാം അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതായിരിക്കാം ഇങ്ങനെ വരുമ്പോൾ വളരെ അധികം ഘടകങ്ങൾ വികാരത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു ഇനി വൈകാരിക പ്രക്രിയയിൽ പ്രധാനമായും നാല് കാര്യങ്ങൾ ഉൾപ്പെടുന്നു അതിൽ ഒന്നാമത്തേത് എന്നുപറയുന്നത് ഉത്തേജിപ്പിക്കപ്പെടുന്ന നാഡീവ്യൂഹമാണ് നാഡീവ്യൂഹം ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരുപക്ഷേ കേന്ദ്ര നാഡീവ്യൂഹം ഉത്തേജിപ്പിക്കപ്പെടുന്നതാകാം അതുപോലെതന്നെ ഓട്ടോണോമിക് നാഡീവ്യൂഹം ഉത്തേജിപ്പിക്കപ്പെടുന്നതാകാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സിനിമ കണ്ടു കൊണ്ടിരിക്കുകയാണ് ആ സിനിമയിൽ നായകൻ വില്ലനെ ഓടിക്കുന്ന ഒരു രംഗം ആണ് നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രംഗം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വ്യത്യാസപ്പെടുത്തുന്നത് നിങ്ങൾ അറിയുന്നു നിങ്ങളുടെ ഹൃദയമിടിപ്പ് ധ്രുതഗതിയിൽ ആകുന്നു കാരണം നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ എണ്ണം വർദ്ധിക്കുന്നു അതുപോലെതന്നെ സ്വാഭാവികമായും നിങ്ങളുടെ നാഡിമിടിപ്പും വർധിക്കുന്നു നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിയും ഒരുപക്ഷേ വ്യത്യാസപ്പെടാം നിങ്ങളുടെ സംവേദനക്ഷമത നിങ്ങളുടെ തൊലിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹം ഇവയിലെല്ലാം വ്യതിയാനം വരുന്നു ഇതിനെ ജി എസ് ആർ അഥവാ ഗാൽവനിക് സ്കിൻ റെസ്പോൺസ് എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹം യഥാർത്ഥത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു വൈകാരിക പ്രക്രിയയിലെ ഒരു പ്രധാന ഘടകം ഇതാണ് രണ്ടാമതായി നാഡീവ്യൂഹം ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്ന ആ ഒരു പ്രവർത്തി നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും സ്വരത്തിലും പ്രത്യക്ഷമാക്കപ്പെടുന്നു നിങ്ങളുടെ മുഖഭാവത്തിൽ വ്യത്യാസം വരുന്നു നിങ്ങളുടെ മുഖത്തേക്ക് ശരിയായി നോക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോകുകയാണോ അല്ലയോ എന്നുള്ളത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് സന്തോഷം ദുഃഖം നിരാശ അത്ഭുതം ഇപ്പറഞ്ഞ എല്ലാ ഭാവങ്ങളെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു രണ്ടാമതായി നിങ്ങളുടെ ശരീരചലനങ്ങൾ ആംഗ്യങ്ങൾ ശാരീരിക നില ഇവയെല്ലാം തന്നെ സ്വാധീനിക്കപ്പെടുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ആംഗ്യങ്ങളും ശാരീരിക നിലയും വളരെ കൃത്യമായി അത് പ്രതിഫലിപ്പിക്കുകയും നിങ്ങൾ ഏതു വിധത്തിലാണ് ഉത്തേജിതനായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അതും നിങ്ങളുടെ ആംഗ്യങ്ങളിലൂടെയും ശാരീരിക നിലയിലൂടെയും പ്രത്യക്ഷമാക്കപ്പെടും ഉദാഹരണത്തിന് നിങ്ങൾ അഗാധമായ ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വികാരത്തിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനം നിങ്ങളുടെ മുഖത്ത് പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു നിങ്ങൾ അനുഭവിക്കുന്ന വൈകാരിക അവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ സ്വരത്തിലും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു മൂന്നാമതായി വികാരങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന മനശാസ്ത്രപരമായ ചില സമ്പ്രദായങ്ങൾ ഉണ്ട് ആത്മനിഷ്ഠമായ അനുഭവത്തിന്റെ ഒരു പൊതുധാരണ എന്ന് പറയാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ നാഡീവ്യൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത് അത് കേന്ദ്ര നാഡീവ്യൂഹത്തിനാകട്ടെ അല്ലെങ്കിൽ ഓട്ടോണോമിക് നാഡീവ്യൂഹത്തിനാകട്ടെ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താണ് അത് നിങ്ങളുടെ മുഖ ഭാവത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ശബ്ദത്തിന് എന്ത് സംഭവിക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് പരിശോധിച്ചു മനസ്സിലാക്കാവുന്ന വ്യത്യാസങ്ങൾ എന്നാൽ ഇതിനെല്ലാമവസാനം ഇതിനെ്റയെല്ലാം പരിണിതഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക അനുഭവം സംസിദ്ധമാകുന്നു എന്താണ് നിങ്ങളുടെ ആ പ്രത്യേകമായ അനുഭവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളിലുളവാകുന്ന ആത്മനിഷ്ഠപരമായ പ്രത്യേകമായ അനുഭവം അത് വളരെ പ്രധാനപ്പെട്ടതാണ് വികാര അനുബന്ധ പ്രക്രിയകളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നാലാമത്തെ എന്ന് പറയുന്നത് നൽകപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ ഉളവാകുന്ന പാരസ്പര്യമാണ് അഥവാ പരസ്പര വ്യവഹാരം ആണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രത്യേകമായ അനുഭവത്തിനനുസരണം ആ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു സാഹചര്യം അത്ര അനുകൂലമല്ല അല്ലെങ്കിൽ പ്രതികൂലമാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ മൊത്തത്തിൽ ഭയപ്പെടുത്തുന്ന ഘടകങ്ങളാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ഒരു പിൻമാറ്റത്തിന്റെ പാതയിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവർത്തികൾ അവിടെ അത്രതന്നെ പ്രത്യക്ഷമാകണമെന്നില്ല അതേസമയം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിസ്മയം നൽകുന്ന അനേകം ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ സാഹചര്യവുമായി വളരെയധികം ഇടപഴകുന്നു അതുകൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിന്റെ മാതൃക നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കപ്പെടുന്നത് വ്യക്തിയ്ക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയുമാണ് വൈകാരിക പ്രക്രിയയിലെ നാല് ഘടകങ്ങൾ വൈകാരിക പ്രക്രിയയെ വിവരിക്കുന്ന ഏതാനും സിദ്ധാന്തങ്ങൾ വളരെ സംക്ഷിപ്തമായി നമ്മളിനി കാണും പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള സൌകര്യത്തിനായി ഞാൻ ആ സിദ്ധാന്തങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുകയാണ് അതിലൊന്ന് ബയോളജിക്കൽ തിയറിയും രണ്ടാമത്തേത് കൊഗ്നിറ്റീവ് തിയറിയുമാണ് പ്ലൂച്ചിക്ക് ഇസാ എക്മാൻ എന്നിവരുടെ സിദ്ധാന്തങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കും കാരണം വികാരങ്ങളെ വർഗ്ഗീകരിക്കുന്നതിന് അവർ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ആത്മനിഷ്ഠപരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകാത്ത വിധത്തിൽ വികാരങ്ങളെ അവയുടെ ഏറ്റവും അടിസ്ഥാന രൂപത്തിലും ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിലും വർഗീകരിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്താണ് അടിസ്ഥാനപരമായ വികാരങ്ങൾ എങ്ങനെയാണ് രണ്ട് അടിസ്ഥാനപരമായ വികാരങ്ങൾ കൂടിയോജിക്കുന്നത് അതുവഴി ഉണ്ടാകുന്ന മൂന്നാമത്തെ ഒരു വികാരം എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ 1984 ജെയിംസ് ലാംങ് മുന്നോട്ടുവെച്ച സിദ്ധാന്തം പരിശോധിക്കാം ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കട്ടെ അദ്ദേഹം പറഞ്ഞു "നമ്മൾ കരയുന്നു കാരണം നമ്മൾ ദുഃഖിതരാണ് നമ്മൾ സമരം ചെയ്യുന്നു കാരണം നമ്മൾ ദേഷ്യത്തിലാണ് നമ്മൾ വിറക്കുന്നു കാരണം നമ്മൾ ഭയത്തിലാണ്" അദ്ദേഹം യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം വികാരവും അതിനനുസരിച്ചുള്ള പ്രതികരണവും അല്ല നമ്മിൽ സംഭവിക്കുന്നത് അദ്ദേഹം പറയുകയാണ് നമ്മൾ കരഞ്ഞു പോകുന്നു അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ദുഃഖം തോന്നുന്നു അതുപോലെതന്നെ നമുക്ക് സംഭ്രമവും വിറയലും വരുന്നു ഇങ്ങനെ വിറയലും സംഭ്രമവും അനുഭവപ്പെടുന്ന നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് നമ്മുടെ ഭയം എന്ന വികാരത്തിന് ആധാരം അതുകൊണ്ടാണ് എന്തിനെയെങ്കിലും കുറിച്ച് നമുക്ക് ഭയം ഉളവാകുന്നത് നമ്മൾ സാധാരണ പറയുന്നത് നമുക്ക് ഭയമുളവായതിനാൽ നമുക്ക് വിറയലും സംഭ്രമവും വന്നു എന്നാണ് എന്നാൽ ഇദ്ദേഹം നേരെ തിരിച്ചാണ് അവകാശപ്പെടുന്നത് ഇനി മനുഷ്യൻ വികാരങ്ങൾ അനുഭവിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വില്യം ജെയിംസ് ചിന്തിക്കുന്ന രീതി നമുക്ക് കാണാം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഇദ്ദേഹത്തിൻറെ ചിന്താരീതിയോട് ചേർന്ന് ചിന്തിക്കുകയും സമാനമായ സിദ്ധാന്തം മുന്നോട്ടു വയ്ക്കുകയും ചെയ്ത ഒരു ഡാനിഷ് മനശാസ്ത്രജ്ഞൻ ഉണ്ട് പേര് കാൾ ലാംങ് അതുകൊണ്ടുതന്നെ ഈ സിദ്ധാന്തം ഈ രണ്ടു മനശാസ്ത്രജ്ഞന്മാർ യോജിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ളതല്ലെങ്കിലും മനശാസ്ത്ര സാഹിത്യരംഗത്ത് ഈ സിദ്ധാന്തത്തിനുഉള്ള ബഹുമതി രണ്ടുപേരും ഒന്നിച്ച് പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചതിനുപിന്നിൽ ഇവരുടെ രണ്ടു പേരുടെയും പേരുകൾ സാധാരണയായി പറയപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഈ സിദ്ധാന്തത്തെ ജെയിംസ് ലാംങ് സിദ്ധാന്തം എന്നാണ് പറയുന്നത് ഈ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക പരിതസ്ഥിതിയിലെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ആദ്യം നമ്മിൽ വികാരത്തിൻറെ സംവേദനക്ഷമതയാണ് സംഭവിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം കാണാം ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നായയെ കണ്ടു ഭയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനെയാണ് ഇപ്പോ എന്തു കൊണ്ടാണ് ആ മനുഷ്യൻ ഓടുന്നത് കാരണം അദ്ദേഹം നായ മൂലം സംരംഭ്രമിച്ചിരിക്കുകയാണ് അഥവാ ഭയപ്പെട്ടിരിക്കുകയാണ് ജെയിംസ് ലാംങ് സിദ്ധാന്തപ്രകാരം ഈ മനുഷ്യൻ ആ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഒരു നായയെ കണ്ടു അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നായ എന്നൊരു അവബോധം ഉണ്ട് ആ അവബോധത്തോടുള്ള അദ്ദേഹത്തിൻറെ പ്രതിപ്രവർത്തനമായിട്ടാണ് അദ്ദേഹം ഓട്ടം ആരംഭിച്ചത് നായ എന്നുള്ള അവബോധം ആദ്യത്തേത് അതിനോടുള്ള ആ മനുഷ്യൻറെ പ്രതിപ്രവർത്തനം ആയ ഓട്ടം അത് രണ്ടാമത്തേത് ഇതിൻറെ എല്ലാം ഫലമായി മൂന്നാമത്തെ പടി ആയിട്ട് വരുന്നതാണ് അദ്ദേഹം വിയർക്കാൻ ആരംഭിക്കുന്നു അദ്ദേഹത്തിൻറെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു എന്നത് നേരിൽ കണ്ട് ഉള്ളിലേക്കെടുത്ത ഒരു വസ്തുവിൽ നിന്നും ഓടി അകലുക എന്നുള്ള ആത്മനിഷ്ഠപരമായ ആ അനുഭവം ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ഭയമെന്ന അവബോധത്തിൽ ആണ് ഇപ്പോൾ നമുക്ക് സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം ജെയിംസ് ലാംങ് പറയുന്നു നിങ്ങൾക്കൊരു വസ്തുവുണ്ട് ഒരു പ്രത്യേക പരിസ്ഥിതിയും സാഹചര്യവും നിലനിൽക്കുന്നു നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വികാരത്തിന് അനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ട ഉദാഹരണത്തിൽ ആ മനുഷ്യൻ നായ മൂലം പരിഭ്രാന്തനാണ് ജെയിംസ് ലാംങ് ഇവരുടെ അഭിപ്രായത്തിൽ ആ മനുഷ്യൻ ആ നായയിൽ നിന്നും ഓടി പോകുന്നു എന്ന വസ്തുതയെ ആശ്രയിച്ചാണ് പ്രധാനമായും അദ്ദേഹത്തിൻറെ ഭയം ഇരിക്കുന്നത് നമുക്ക് മറ്റൊരു വളരെ വളരെ താൽപര്യജനകമായ ഒരു ഉദാഹരണം കാണാം ഇവിടെ 14 മാസം മാത്രം പ്രായമായ ഒരു കുഞ്ഞ് ഒരു സർപ്പത്തിന്റെ കൂടെ കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മുൻപിലത്തെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടു ഒരു പ്രായപൂർത്തി വന്ന മനുഷ്യൻ നായയിൽ നിന്നും ഓടി പോകുന്നത് അദ്ദേഹം ഇങ്ങനെയാണത് വിശദീകരിച്ചത് ആ സാഹചര്യത്തിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഓടിപ്പോയി ഓടാൻ തുടങ്ങിയതുകൊണ്ട് അദ്ദേഹം ഭയം അനുഭവിക്കാൻ തുടങ്ങി ഇവിടെ ഇപ്പോഴത്തെ ഈ ഉദാഹരണത്തിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സർപ്പം ചുരുണ്ടു കിടക്കുകയാണ് കുട്ടി കളിക്കുകയാണ് ആ കുട്ടിയുടെ കാൽ സർപ്പത്തിന് അടിയിലാണ് കുട്ടിയുടെ കൈ ആണെങ്കിലോ സർപ്പത്തിന്റെ ശരീരത്തോട് വളരെ ചേർന്നാണ് എന്നിട്ടും അവിടെ കുട്ടിയുടെ മുഖത്ത് ഭയത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല ഇപ്പോൾ ഇവിടെയുള്ള ഉദാഹരണത്തിൽ ആ കുഞ്ഞ് സർപ്പത്തെ കണ്ടു പരിഭ്രമിക്കുന്നില്ല ആ ഒരു വസ്തുവിനെ കുഞ്ഞ് പരിഗണിക്കുന്നേയില്ല ആ സർപ്പത്തെ സംശയത്തോടെ വീക്ഷിക്കണം എന്നോ അതിൽ നിന്ന് ഓടി പോകണം എന്നോ ഉള്ള ഒരു അവബോധം ആ കുഞ്ഞിന് ലഭിക്കുന്നില്ല കുഞ്ഞ് ഓടി പോകാത്തത് കൊണ്ട് തന്നെ ആ കുഞ്ഞിൽ ഭയം ഉടലെടുക്കുന്നില്ല എന്നാൽ നമ്മിൽ ആരെങ്കിലും ആണ് ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ വന്നുപെടുന്നതെങ്കിൽ നമ്മൾ അങ്ങേയറ്റം പരിഭ്രാന്തരാകും അപ്പോൾ ഇതാണ് ജെയിംസ് ലാംങ് സിദ്ധാന്തം ജെയിംസ് ലാംങ് സിദ്ധാന്തം വീണ്ടും പറയുന്നു ഇന്നു ഞാൻ അവരെ വീണ്ടും ഉദ്ധരിക്കുകയാണ് "ക്ഷോഭ ജനകമായ അഥവാ ഉത്തേജനം നൽകുന്ന ഒരു വസ്തുതയെ പറ്റിയുള്ള അവബോധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ അതേ വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതിനെയാണു വികാരം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം നമുക്കുണ്ടാകുന്ന അനുഭവത്തെ ആണ് വികാരം എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ സിദ്ധാന്തം വീണ്ടും ഒരു കാര്യം കൂടി കുട്ടി ചേർക്കുകയാണ് ഈ ശാരീരിക സംവേദനക്ഷമത ആണ് വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപ് സംഭവിക്കുന്നത് മറിച്ചല്ല നമ്മിൽ മിക്കവരും നേരെ മറിച്ചാണ് സാധാരണ ചിന്തിക്കാറുള്ളത് അതായത് ആദ്യം വികാരങ്ങൾ ഉടലെടുക്കുന്നു അവ ശാരീരിക വ്യതിയാനങ്ങൾക്ക് കാരണമാക്കുന്നു എന്ന് എന്നാൽ ജെയിംസ് ലാംങ് സിദ്ധാന്തം പറയുന്നത് ആദ്യം നമുക്ക് ശാരീരിക വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നു നമുക്ക് അനുഭവപ്പെടുന്ന ഈ ശാരീരിക വ്യതിയാനങ്ങളാണ് പിന്നീട് വികാരങ്ങൾക്ക് കാരണമാകുന്ന അനുഭവത്തിലേക്ക് നയിക്കുന്നത് മറ്റൊരു ചിത്രത്തിലേക്ക് നമ്മൾ വരികയാണ് കാനൻ ബാർഡ് സിദ്ധാന്തം വരുന്നത് 1915 ലാണ് ജെയിംസ് ലാംങ് കാഴ്ചപ്പാടിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് ഇത് അദ്ദേഹം പറയുന്നത് ഒരു വികാരത്തിൻറെ അവബോധത്തിന് അടിസ്ഥാനമാകുന്നത് ഉദ്ദീപനക്ഷമതയുള്ള ഒരു പരിതസ്ഥിതിയിലെ സാഹചര്യമാണ് എന്നാണ് ഉദ്ദീപന ക്ഷമതയുള്ള ഒരു പരിതസ്ഥിതിയിലെ സാഹചര്യം ആദ്യം ഒരു പ്രത്യേക വികാരത്തെ പറ്റിയുള്ള അവബോധം വ്യക്തിയിൽ ഉളവാക്കുന്നു ഇത് പിന്നീട് തലച്ചോറിൻറെ താഴ്ന്ന മേഖലകളിൽ പ്രവർത്തന മാതൃകയിലേക്ക് നയിക്കുന്നു ഒരു പ്രത്യേക പരിസ്ഥിതിയിലെ സാഹചര്യത്തിൽ നിന്നും ഉളവാകുന്ന അവബോധം ചില പ്രവർത്തന മാതൃകകളിലേക്ക് നയിക്കപ്പെടുന്നു അത് ഉടലെടുക്കുന്നത് ലോവർ ബ്രെയിൻ ഏരിയയിലാണ് അപ്പോൾ ഇവിടെ രണ്ടു കാര്യങ്ങൾ ഒരേസമയം സംഭവിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉളവായ വികാരത്തിന് അനുസരണം തലച്ചോറ് ഒരു പ്രവർത്തന മാതൃകയെ രൂപപ്പെടുത്തുന്നു ഈ വികാരത്തെ പ്രകടിപ്പിക്കുന്നതിനായി ശരീരം ഈ പ്രവർത്തന മാതൃകകൾ നടപ്പിൽ വരുത്തുന്നു അപ്പോൾ ജെയിംസ് ലാംങ് സിദ്ധാന്തവും കാനൻ ബാർഡ് സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജെയിംസ് ലാംങ് സിദ്ധാന്തം പറയുന്നത് ഒരു പരിസ്ഥിതിയിലെ വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന സാഹചര്യത്തെ പറ്റി ആദ്യം നമ്മൾ അവബോധമുള്ളവരാകുകയും അതിനെ തുടർന്ന് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ പ്രതികരണം സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രതികരണ മാതൃകയിലേക്ക് നോക്കുകയും നമ്മൾ വികാരം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ കാനൻ ബാർഡ് സിദ്ധാന്തം ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുത്തുന്നുണ്ട് അവർ പറയുന്നു വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന സാഹചര്യത്തെ പറ്റി അവബോധം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഈ അവബോധം ചില പ്രവർത്തികളിലേക്ക് നമ്മെ നയിക്കുന്നു ആ പ്രവർത്തികൾ ആകട്ടെ രൂപപ്പെടുന്നത് നമ്മുടെ ലോവർ ബ്രെയിൻ ഏരിയയിലാണ് ഇങ്ങനെ നമ്മുടെ ലോവർ ബ്രെയിൻ ഏരിയയിൽ രൂപപ്പെടുന്ന ഈ പ്രവർത്തന മാതൃക ഒരേ സമയം രണ്ട് കാര്യങ്ങളിലേക്ക് നയിക്കുന്നു നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ വികാരം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മൾ വികാരം അനുഭവിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രതികരണവും നമ്മൾ യഥാർഥത്തിൽ അനുഭവിക്കുന്ന വികാരവും ഇതുരണ്ടും സമാന്തരമായി സംഭവിക്കുന്നു ഇതാണ് കാനൻ ബാർഡ് സിദ്ധാന്തം ബയോളജിക്കൽ ഫ്രെയിം വർക്കിൽ നമ്മൾ പരിഗണിക്കുന്ന മൂന്നാമത്തെ സിദ്ധാന്തം ബിന്ദ്രയുടെ സെൻട്രൽ മോട്ടീവ് തിയറിയാണ് സെൻട്രൽ മോട്ടീവ് സ്റ്റേറ്റ് എന്നു പറയുന്നത് അനുഭവങ്ങൾ കൊണ്ട് വ്യതിയാനം വരുത്താൻ സാധിക്കുന്ന സ്വയം നിയന്ത്രിതമായ ഒരു ആന്തരിക അവസ്ഥ മാത്രമല്ല അതിനു ചില പാരമ്പര്യ സ്വഭാവമുള്ള ഘടകങ്ങളുമുണ്ട് അതുകൊണ്ടുതന്നെ സെൻട്രൽ മോട്ടീവ് സ്റ്റേറ്റ് ശാസ്ത്രീയമായി കണ്ടീഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഒരു പ്രത്യേക പ്രചോദനത്തോട് പ്രത്യേകമായ രീതിയിൽ പ്രതികരിക്കുവാനും പെരുമാറുവാനും പരിശീലിപ്പിക്കാൻ സാധിക്കും എന്നർത്ഥം തൊട്ട് മുൻപ് നമ്മൾ കണ്ടു ഒരു കുഞ്ഞ് ഒരു സർപ്പവുമായി കളിക്കുന്നത് ഒരു ബർമക്കാരനായ കുഞ്ഞിൻറെ പിതാവ് ഇത് ചിത്രീകരിച്ചത് ഒരു പ്രത്യേക കാര്യം ലോകത്തെ മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഒരു പ്രത്യേകമായ സന്ദേശം നൽകുന്നതിനായിട്ടാണ് അതായത് മനുഷ്യർ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും കണ്ടു സംഭ്രമിക്കേണ്ട ആവശ്യമില്ല മറിച്ച് മനുഷ്യർ എല്ലാ മൃഗങ്ങളെയും ജന്തുജാലങ്ങളെയും സംരക്ഷിക്കേണ്ടവനാണ് നമ്മൾ വളരെയധികം ഭയപ്പെടുന്ന പാമ്പുകളെ ഉൾപ്പെടെ എന്ന സന്ദേശം അടിസ്ഥാനപരമായി അദ്ദേഹം ഈ പ്രവർത്തി വഴി ചെയ്യുന്നത് അദ്ദേഹത്തിൻറെ കുഞ്ഞിനെ ഈ വിധത്തിൽ പരിശീലിപ്പിക്കുന്നു എന്ന് മാത്രമല്ല സമൂഹത്തിനു മുഴുവൻ ഈ വിധത്തിൽ ഒരു സന്ദേശം നൽകുവാൻ കൂടിയുള്ള പരിശ്രമമാണ് ഇതുവഴി അടിസ്ഥാനപരമായി നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കാൻ സാധിക്കും ഒരു സർപ്പത്തെ കണ്ടാൽ പോലും ഭയപ്പെടാതെ പെരുമാറുവാൻ ഉള്ള പരിശീലനം നൽകുവാൻ സാധിക്കും സാധാരണ മനുഷ്യർ നേരെ വിപരീതമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വരികിലും